ആശംസകൾ TALE മൊഡൃൂൾ 3 യൂണിറ്റ് 16മെറ്റാകോഗ്നിറ്റീവ് പഠനത്തിലേക്ക് സ്വാഗതം മുമ്പത്തെ യൂണിറ്റിൽ ഡിസൈനിനായുള്ള നിർദ്ദേശം ഞങ്ങൾ മനസ്സിലാക്കി മുമ്പത്തെ വിഷയത്തിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഈ യൂണിറ്റിൽ മെറ്റാകോഗ്നിറ്റീവ് പഠനത്തിനുള്ള ആവശ്യകതയും രീതികളും മനസിലാക്കുകയാണ് ഞങ്ങൾ ലക്ഷ്യമിടുന്നത് മെറ്റാകോഗ്നിറ്റീവ് പഠനത്തിന്റെ ഈ മേഖല ഭൂരിഭാഗം ഫാക്കൽറ്റികൾക്കും ഒരുപോലെ പുതിയതാണ് പദാവലി അതിന്റെ പങ്ക് അതിനെക്കുറിച്ച് എന്തുചെയ്യണം എന്നിവ മനസിലാക്കാൻ ഇതിന് കുറച്ച് സമയം ചിലവഴിക്കേണ്ടതുണ്ട് ഇത് ഞങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ മെറ്റാകോഗ്നിറ്റീവ് ലേണിംഗ് വഹിക്കുന്ന പ്രധാന പങ്ക് വിലമതിക്കാൻ ഞങ്ങൾക്ക് കഴിയും TALE മൊഡ്യൂൾ 1 ൽ പഠനത്തിന്റെ ടാക്സോണമിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഞങ്ങൾ മെറ്റാകോഗ്നിഷനെക്കുറിച്ച് സംസാരിച്ചു ആൻഡേഴ്സൺ ബ്ലൂമിന്റെ ടാക്സോണമി അനുസരിച്ച് വിജ്ഞാന വിഭാഗങ്ങളിലൊന്നാണ് മെറ്റാകോഗ്നിറ്റീവ് അറിവ് മെറ്റാകോഗ്നിഷൻ എന്നത് സ്വന്തം ചിന്തയെക്കുറിച്ചാണ് ചിന്തിക്കുക എന്നതാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് നമ്മുടെ സ്വന്തം കഴിവുകൾ അറിവ് അല്ലെങ്കിൽ പഠനം എന്നിവ വിലയിരുത്താനുള്ള കഴിവാണ് എനിക്ക് എന്താണ് ചെയ്യാൻ കഴിയുകയെന്നത് അല്ലെങ്കിൽ എനിക്കറിയാവുന്നതെന്താണ് അല്ലെങ്കിൽ ഞാൻ പഠിക്കുന്നുണ്ടോ ഇല്ലയോ ഞാൻ പഠിച്ചാലും ഇല്ലെങ്കിലും ഞാൻ മനസ്സിലാക്കുന്നുണ്ടോ ഒരു വ്യക്തിയുടെ സ്വന്തം അറിവ് ചിന്താ പ്രക്രിയ എന്നിവയെക്കുറിച്ചുള്ള അവബോധം കൂടിയാണിത് വ്യക്തമായും നമ്മുടെ സ്വന്തം മെറ്റാകോഗ്നിഷനെ അടിസ്ഥാനമാക്കി ആ കഴിവ് വിദ്യാർത്ഥികൾ എത്രനേരം എത്രത്തോളം നന്നായി പഠിക്കുന്നു എന്നതിനെ ബാധിക്കുന്നു ഉദാഹരണത്തിന് എനിക്ക് പ്രത്യേക വിഷയം നന്നായി അറിയാമെന്ന് എനിക്കറിയാമെങ്കിൽ ഞാൻ അതിൽ സമയം ചെലവഴിക്കുകയില്ല പക്ഷേ എനിക്ക് പൂർണ്ണമായി മനസ്സിലാകുന്നില്ലെന്ന് എനിക്കറിയാമെങ്കിൽ ഞാൻ ആ പ്രത്യേക വിഷയത്തിനായി കൂടുതൽ സമയം ചെലവഴിക്കും ഒരു പ്രത്യേക വിഷയം പഠിക്കാൻ ഞാൻ ചെലവഴിക്കുന്ന സമയം വ്യക്തമായും എന്റെ മെറ്റാകോഗ്നിറ്റീവ് അറിവിനെ ആശ്രയിച്ചിരിക്കും ഇത് വിദ്യാർത്ഥികൾ എത്രത്തോളം ആഴത്തിൽ പഠിക്കുന്നു എന്നതിനെ സ്വാധീനിക്കുന്നു ഉദാഹരണത്തിന് എനിക്ക് ഉപരിപ്ലവമായി പഠിക്കാനും ഞാൻ പഠിച്ചുവെന്ന് സ്വയം അവകാശപ്പെടാനും കഴിയും ചില ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകേണ്ടിവരുമ്പോൾ മാത്രമാണ് എന്റെ പഠനം പര്യാപ്തമായിരുന്നില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് മെറ്റാകോഗ്നിറ്റീവ് കഴിവ് വിദ്യാർത്ഥികൾ എത്ര നന്നായി എത്ര കാലം എത്രത്തോളം എത്ര ആഴത്തിൽ പഠിക്കുന്നു എന്നതിനെ ബാധിക്കുന്നു ഇത് എങ്ങനെ തർജ്ജമ ചെയ്യും ഇവയെല്ലാം അധ്യാപകരുടെയോ വിദ്യാർത്ഥിയുടെയോ ദൈനംദിന പ്രവർത്തനത്തിലേക്ക് വിവർത്തനം ചെയ്യപ്പെടുന്നു മെറ്റാകോഗ്നിറ്റീവ് കഴിവ് എന്നാൽ പഠന ലക്ഷ്യങ്ങൾ വിജയ മാനദണ്ഡങ്ങൾ വിവരണാത്മക ഫീഡ്ബാക്ക് എന്നിവ ഉപയോഗിക്കുക എല്ലാ നിബന്ധനകളും വ്യക്തമല്ല അതിനർത്ഥം ഞാൻ പഠന ലക്ഷ്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ടോ അല്ലെങ്കിൽ എങ്ങനെ ഉപയോഗിക്കാം എന്റെ വിജയ മാനദണ്ഡം ഞാൻ എങ്ങനെ ഉപയോഗിക്കും കൂടാതെ എനിക്ക് നൽകിയ വിവരണാത്മക ഫീഡ്ബാക്ക് ഞാൻ എങ്ങനെ മനസ്സിലാക്കും മനോഭാവങ്ങളും ശീലങ്ങളും പഠനത്തെ എങ്ങനെ സ്വാധീനിക്കുന്നുവെന്ന് തിരിച്ചറിയുക മുൻഗണനകളും ശക്തികളും തിരിച്ചറിയുക ആശയവിനിമയം നടത്തുക പ്രവർത്തിക്കുക പഠന സാഹചര്യങ്ങൾ വിലയിരുത്തുക പ്രവർത്തന പദ്ധതികൾ വികസിപ്പിക്കുക സ്വന്തം ചിന്തയെക്കുറിച്ച് പഠിക്കുകയും സംഭാഷണത്തിൽ ഏർപ്പെടുകയും ചെയ്യുക എല്ലാവരും വികസിപ്പിക്കേണ്ട ഒരു കഴിവാണ് ഇതെന്ന് ഞാൻ കരുതുന്നു പഠനത്തെ കൂടുതലായി ചിന്തിക്കുക അതിനർത്ഥം ഞാൻ എങ്ങനെ പഠിച്ചു ഞാൻ കടന്നുപോയ പ്രക്രിയയിൽ എവിടെയാണ് എനിക്ക് ബുദ്ധിമുട്ട് നേരിട്ടത് എന്റെ പഠനത്തെ ഞാൻ എങ്ങനെ വിലമതിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട് എന്റെ സ്വന്തം കാര്യവുമായി മറ്റൊരാളുമായി സംഭാഷണത്തിൽ ഏർപ്പെടാൻ എനിക്ക് കഴിയണം നാം എത്രത്തോളം ചെയ്യുന്നുവോ അത്രത്തോളം മെറ്റാകോഗ്നിറ്റീവ് കഴിവ് നമുക്ക് ലഭിക്കും ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും പൂർണ്ണമായി മനസ്സിലാകില്ല പഠനത്തിന് തടസ്സങ്ങൾ നേരിടുമ്പോഴാണ് ഞങ്ങൾ വ്യക്തതയും പിന്തുണയും തേടേണ്ടത് നിങ്ങളുടെ ദൈനംദിന കാര്യങ്ങളിൽ ഒരു പഠന പ്രവർത്തനം അല്ലെങ്കിൽ അദ്ധ്യാപന പ്രവർത്തനം ഇവയെല്ലാം ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുന്നുവെങ്കിൽ ഞങ്ങൾക്ക് മെറ്റാകോഗ്നിറ്റീവ് കഴിവുണ്ട് മെറ്റാകോഗ്നിറ്റീവ് കഴിവിനെക്കുറിച്ചോ മെറ്റാകോഗ്നിറ്റീവ് പ്രവർത്തനങ്ങളെക്കുറിച്ചോ നാം എന്തിന് ആശങ്കപ്പെടണം ഉയർന്ന പ്രകടനം കാഴ്ചവയ്ക്കുന്ന വിദ്യാർത്ഥികൾക്ക് നല്ല മെറ്റാകോഗ്നിറ്റീവ് കഴിവുകൾ ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം ഐഐടികൾ എൻഐടികൾ പോലുള്ള ഉയർന്ന നിലവാരമുള്ള സ്ഥാപനങ്ങളിൽ വളരെ വിപുലമായ പ്രക്രിയയിലൂടെ വിദ്യാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നിടത്ത് അവർ ഉയർന്ന പ്രകടനം കാഴ്ചവയ്ക്കുന്ന വിദ്യാർത്ഥികളാണ് അവർക്ക് മെച്ചപ്പെട്ട മെറ്റാകോഗ്നിറ്റീവ് കഴിവുകൾ ഉണ്ട് ഒരു ഐഐടി എൻഐടിയിൽ അധ്യാപകർ മെറ്റാകോഗ്നിറ്റീവ് നിർദ്ദേശങ്ങൾക്കായി കൂടുതൽ സമയം ചെലവഴിക്കുന്നില്ലെങ്കിൽ കാരണം ഭൂരിഭാഗം വിദ്യാർത്ഥികൾക്കും ഇതിനകം ആ വൈദഗ്ദ്ധ്യം ഉണ്ട് എന്നാൽ ദുർബലരായ വിദ്യാർത്ഥികൾക്ക് മറ്റ് കാര്യങ്ങൾക്കൊപ്പം മോശം മെറ്റാകോഗ്നിഷൻ ഉണ്ട് 90 എഞ്ചിനീയറിംഗ് കോളേജുകളിലും ഗണ്യമായ ശതമാനവും ദുർബലരായ വിദ്യാർത്ഥികളാണ് അവരുടെ പഠനത്തെ അവരുടെ മോശം മെറ്റാകോഗ്നിഷൻ കഴിവുകൾ സ്വാധീനിക്കുന്നു കഴിവില്ലായ്മയുടെ ഒരു വലിയ ഭാഗമാണ് മോശം മെറ്റാകോഗ്നിഷൻ എന്ന് പറയാം ദുർബലരായ വിദ്യാർത്ഥികൾ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പ്രവേശിക്കുന്നു അവരുടെ ബലഹീനതയുടെ ഒരു ഘടകമാണ് അവരുടെ മോശം മെറ്റാകോഗ്നിഷൻ ഉദാഹരണത്തിന് മോശം മെറ്റാകോഗ്നിഷൻ കഴിവുള്ള വിദ്യാർത്ഥികൾ അവരുടെ പഠന സമയം കുറയ്ക്കുന്നു അവർ കുറച്ച് സമയത്തേക്ക് വായിക്കുകയും അവർ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് കരുതുകയും ചെയ്യുന്നു മാത്രമല്ല തങ്ങൾക്കറിയാവുന്ന കോഴ്സ് മെറ്റീരിയലുകൾ അവർ അധീനമാക്കിയിട്ടുണ്ടെന്നും അല്ലെങ്കിൽ മനസിലാക്കുന്ന തലത്തിൽ അമിത ആത്മവിശ്വാസം പുലർത്തുന്നുവെന്നും അല്ലെങ്കിൽ ടെസ്റ്റുകളിലെ അവരുടെ പ്രകടനത്തെ കുറച്ചുകാണുകയോ അമിതമായി വിലയിരുത്തുകയും ചെയ്യത് മോശമായ പഠന തീരുമാനങ്ങൾ എടുക്കുന്നു ടെസ്റ്റിനുശേഷം ഒരു ദുർബലമായ മെറ്റാകോഗ്നിറ്റീവ് വിദ്യാർത്ഥിയോട് നിങ്ങൾ ചോദിച്ചാൽ അയാൾ മുഴുവൻ പേപ്പറും നന്നായി ചെയ്തതായി അയാൾക്ക് ആത്മവിശ്വാസം തോന്നാം അല്ലെങ്കിൽ താൻ ഒന്നും ചെയ്തില്ലെന്ന് പ്രഖ്യാപിക്കും അതിനാൽ അവന്റെ പ്രകടനം യാഥാർത്ഥ്യമായി കണക്കാക്കാൻ അദ്ദേഹത്തിന് കഴിയില്ല അതിനാൽ അവർ എത്രമാത്രം പഠിക്കണം എപ്പോൾ പഠിക്കണം എന്ത് പഠിക്കണം എന്നതിനെക്കുറിച്ചുള്ള തെറ്റായ പോസ്റ്റ് ടെസ്റ്റ് പഠന തീരുമാനങ്ങൾ എടുക്കുന്നു ഇപ്പോൾ മെറ്റാകോഗ്നിഷന്റെ ഘടകങ്ങൾ ഞങ്ങൾ നോക്കുന്നു മെറ്റാകോഗ്നിറ്റീവ് അറിവ് മെറ്റാകോഗ്നിറ്റീവ് മോണിറ്ററിംഗ് മെറ്റാകോഗ്നിറ്റീവ് നിയന്ത്രണം എന്നിവയാണ് മൂന്ന് ഘടകങ്ങൾ ഈ വിഷയസംബന്ധിയായ സകല രചനകളിലും നിരീക്ഷണവും നിയന്ത്രണവും ഒരുമിച്ച് മെറ്റാകോഗ്നിറ്റീവ് റെഗുലേഷൻ എന്നാണ് വിളിക്കുന്നു ഇന്നും പല ഗവേഷണ പ്രബന്ധങ്ങളും നിരീക്ഷണവും നിയന്ത്രണവും വേർതിരിക്കുന്നില്ല അതേസമയം ചില ഭാഗങ്ങളിൽ നിരീക്ഷണം ഒരു പ്രത്യേക പ്രക്രിയയാണ് നിയന്ത്രിക്കുന്നത് ഒരു പ്രത്യേക പ്രക്രിയയാണ് മെറ്റാകോഗ്നിറ്റീവ് അറിവ് നിങ്ങൾക്ക് ടാസ്ക്കുകളെക്കുറിച്ചും ഉള്ളടക്കത്തെക്കുറിച്ചും അറിവുണ്ടോ നിങ്ങൾക്ക് ചുമതല മനസ്സിലായോ എന്താണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്കറിയാമോ നിങ്ങൾക്ക് അവതരിപ്പിച്ച ഉള്ളടക്കങ്ങൾ മനസ്സിലായോ അതാണ് ചുമതലകളെക്കുറിച്ചുള്ള അറിവ് മറ്റൊന്ന് വിജ്ഞാനത്തെയും വിജ്ഞാന തന്ത്രങ്ങളെയും കുറിച്ചുള്ള അറിവാണ് ഉദാഹരണത്തിന് മെറ്റാകോഗ്നിറ്റീവ് അറിവ് പ്രഖ്യാപകമായ അറിവും നടപടിക്രമ പരിജ്ഞാനവുമാണ് മെമ്മറി ചിന്ത പ്രശ്ന പരിഹാരം എന്നിവയ്ക്കായി എന്ത് തന്ത്രങ്ങൾ ലഭ്യമാണ് ഈ മൂന്ന് പ്രവർത്തനങ്ങളായതിനാൽ ഒരു വിദ്യാർത്ഥി ആധിപത്യം പുലർത്താൻ സാധ്യതയുണ്ട് അതിനർത്ഥം എനിക്ക് എന്ത് തന്ത്രം അറിയാം താൽക്കാലിക മെമ്മറിയിൽ നിന്ന് ദീർഘകാല മെമ്മറിയിലേക്ക് മാറ്റുന്നതിന് എനിക്ക് എന്ത് തന്ത്രങ്ങളുണ്ട് എനിക്ക് ഉള്ള എല്ലാ തന്ത്രങ്ങളും എന്താണ് ആ തന്ത്രങ്ങളെക്കുറിച്ച് എനിക്കറിയാമോ അതുപോലെ ചിന്തയ്ക്കും പ്രശ്ന പരിഹാരത്തിനും ഈ തന്ത്രങ്ങളെക്കുറിച്ച് എനിക്ക് അറിയാമോ അതുപോലെ ഈ അറിവ് നടപടിക്രമ പരിജ്ഞാനത്തെ സൂചിപ്പിക്കുന്നു അതായത് വ്യത്യസ്ത തന്ത്രങ്ങൾ എങ്ങനെ ഉപയോഗിക്കാം നടപ്പിലാക്കണം കൂടാതെ വ്യത്യസ്ത വൈജ്ഞാനിക തന്ത്രങ്ങൾ എപ്പോൾ എന്തിന് ഉപയോഗിക്കണം നിങ്ങൾക്ക് കാണാനാകുന്നതുപോലെ വൈജ്ഞാനിക തന്ത്രങ്ങളെക്കുറിച്ചുള്ള അറിവ് ഇവയാണ് ലഭ്യമായത് ഞാൻ ആദ്യം അതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടതുണ്ട് ഇവയൊന്നും എനിക്കറിയില്ലെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് വ്യക്തമായി വായിച്ചിട്ടില്ല മെറ്റാകോഗ്നിറ്റീവ് അറിവിന്റെ മൂന്നാമത്തെ വശമാണിത് ഒരു പഠിതാവെന്ന നിലയിൽ എന്റെ സ്വന്തം ശക്തിയും ബലഹീനതയും എനിക്കറിയാമോ ഈ വർഗ്ഗീകരണം അല്ലെങ്കിൽ മെറ്റാകോഗ്നിറ്റീവ് അറിവിന്റെ ഈ വിശദീകരണം പ്ലിൻട്രിക് മറ്റ് ഉള്ളവരും മുഖാന്തരം ലഭിച്ചതാണ് മെറ്റാകോഗ്നിറ്റീവ് മോണിറ്ററിംഗ് എന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്ക് നിരീക്ഷിക്കാൻ കഴിയണം വൈജ്ഞാനിക പ്രവർത്തനത്തിന്റെ നിലവിലെ അവസ്ഥ വിലയിരുത്തുന്നതിനാണ് മെറ്റാകോഗ്നിറ്റീവ് മോണിറ്ററിംഗ് നിർവചിച്ചിരിക്കുന്നത് ഇതിൽ കൃത്യം ചെയ്യുന്നതിന് ഉളള ബുദ്ധിമുട്ട് അല്ലെങ്കിൽ പഠന വിധിന്യായങ്ങൾ ഉൾപ്പെടുന്നു അതിനർത്ഥം ഞാൻ ഒരു വിധി നിർണ്ണയിക്കുന്നു ഒരു പഠന വൈദഗ്ദ്ധ്യം നിർവ്വഹിക്കുന്നത് എത്ര എളുപ്പമോ പ്രയാസമോ ആണെന്ന് വിലയിരുത്തുന്നു ഒരു പഠന ദൌത്യം നിർവഹിക്കുന്നത് എത്ര എളുപ്പമോ പ്രയാസകരമോ ആണെന്ന് വിലയിരുത്തുന്നതിലൂടെ നിരീക്ഷണത്തിലൂടെ എനിക്ക് അറിയാൻ കഴിയണം പഠനത്തെ നിരീക്ഷിക്കുകയെന്നാൽ ഒരു പ്രത്യേക വിഷയം ഒരാൾ എത്രത്തോളം പഠിച്ചുവെന്ന് ഒരാൾ എത്രത്തോളം മുന്നോട്ട് പോകണമെന്ന് തീരുമാനിക്കുക എന്നതാണ് "ഒരു പ്രത്യേക വിഷയം പഠിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഞാൻ ഇവിടെയാണ്" എന്നത് നിരീക്ഷണമാണ് കൂടാതെ അറിയുന്നതിന്റെ വികാരങ്ങൾ നിരീക്ഷിക്കാൻ എനിക്ക് കഴിയണം ഉദാഹരണത്തിന് എന്തെങ്കിലും അറിയുന്നതിനെക്കുറിച്ചുള്ള അവബോധത്തിന്റെ അനുഭവം പക്ഷേ അത് പൂർണ്ണമായും ഓർമിക്കാൻ കഴിയുന്നില്ല അറിവിന്റെ ഇത്തരത്തിലുള്ള വികാരവും നിരീക്ഷണത്തിന്റെ ഭാഗമാണ് അടുത്തത് ആത്മവിശ്വാസ വിമർശനമാണ് പ്രതികരണത്തിന്റെ കൃത്യതയോ ഔചിതൃമോ തീരുമാനങ്ങൾ നൽകുന്നു ഉദാഹരണത്തിന് ഞാൻ എന്തെങ്കിലും പ്രതികരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അത് ശരിയായി ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കാൻ എനിക്ക് കഴിയുമോ അതിനർത്ഥം ഞങ്ങളുടെ ശരിയായ ഒരു വിമർശനം ഞാൻ നടത്തിയിട്ടുണ്ടെങ്കിൽ വിമർശിക്കാനുള്ള എന്റെ കഴിവിലുള്ള എന്റെ ആത്മവിശ്വാസം വർദ്ധിക്കും അതിനാൽ മെറ്റാകോഗ്നിറ്റീവ് മോണിറ്ററിംഗിന്റെ നാല് ഘടകങ്ങൾ ഇവയാണ് മെറ്റാകോഗ്നിറ്റീവ് നിയന്ത്രണം മെറ്റാകോഗ്നിറ്റീവ് മോണിറ്ററിംഗിനെ അടിസ്ഥാനമാക്കി ഞങ്ങളുടെ വൈജ്ഞാനിക പ്രവർത്തനത്തിന്റെ ചില വശങ്ങൾ നിയന്ത്രിക്കാൻ ഞങ്ങൾക്ക് കഴിയണം ഏത് വശമാണ് ഞങ്ങൾ നിയന്ത്രിക്കുന്നത് ഒന്ന് പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുക ആസൂത്രണ പ്രവർത്തനം എന്നതിനർത്ഥം പഠനം സമയ ഉപയോഗം പ്രകടനം എന്നിവയ്ക്കായി ലക്ഷ്യങ്ങൾ നിർണ്ണയിക്കാൻ എനിക്ക് കഴിയണം എന്നാണ് ഞാൻ ലക്ഷ്യങ്ങൾ നിശ്ചയിച്ചു നാളെ ഇത്ര സമയത്തിനുളളിൽ ഈ വിഷയത്തിനായി ഒരു കൂട്ടം സ്ലൈഡുകൾ തയ്യാറാക്കാൻ എനിക്ക് കഴിയണം എനിക്ക് പൊതുവെ എത്ര സമയം ആവശ്യമാണ് ഞാൻ അത് എത്ര നന്നായി ചെയ്യാൻ പോകുന്നു തന്ത്രപരമായ തിരഞ്ഞെടുപ്പും ഉപയോഗവും ഒരു ദൌതൃത്തിനായി ഉപയോഗിക്കേണ്ട തന്ത്രങ്ങളെക്കുറിച്ച് തീരുമാനങ്ങൾ എടുക്കുക അല്ലെങ്കിൽ ഒരു ദൌതൃം നിർവഹിക്കുന്നതിനുള്ള തന്ത്രങ്ങൾ എപ്പോൾ മാറ്റണം നിങ്ങൾ ലക്ഷ്യങ്ങൾ നിർണ്ണയിക്കുക മാത്രമല്ല തന്ത്രങ്ങളെക്കുറിച്ച് തീരുമാനങ്ങൾ എടുക്കുകയാണ് കൂടാതെ ഏത് സാഹചര്യത്തിലാണ് നിങ്ങൾ തന്ത്രം മാറ്റുന്നത് എന്നും അറിയണം നിയന്ത്രണം സമയ ഉപയോഗത്തിന്റെ നിയന്ത്രണം പരിശ്രമം പഠന വേഗത പ്രകടനം എന്നിവയ്ക്കായി നിങ്ങൾ എങ്ങനെ വിഭവങ്ങൾ അനുവദിക്കും മനഃപുർവമായ നിയന്ത്രണം പ്രചോദനം വികാരം പരിസ്ഥിതി എന്നിവയുടെ നിയന്ത്രണവും കാരണം ഞങ്ങൾ ജോലി ചെയ്യുമ്പോൾ പരിസ്ഥിതിയുടെ മേൽ ഞങ്ങൾക്ക് അത്രയധികം നിയന്ത്രണം ഉണ്ടാകണമെന്നില്ല ഇത് വളരെ ശബ്ദായമാനമായതാണെന്ന് നമുക്ക് പറയാം എനിക്ക് അത് നിയന്ത്രിക്കേണ്ടതുണ്ട് എനിക്ക് ഒന്നിനെക്കുറിച്ച് നെഗറ്റീവായി തോന്നുന്നു എന്റെ വികാരങ്ങളെയും പ്രചോദനങ്ങളെയും നിയന്ത്രിക്കാനും എനിക്ക് കഴിയണം മെറ്റാകോഗ്നിറ്റീവ് നിയന്ത്രണ തീരുമാനങ്ങൾ പഠനത്തിൻ്റെ ദിശയെയും രീതിയെയും സ്വാധീനിക്കുന്നു മിക്കപ്പോഴും ഞങ്ങൾ പക്ഷേ അതിനെക്കുറിച്ച് പൂർണ്ണമായി അറിയാതെ തന്നെ ഈ നാല് പ്രവർത്തനങ്ങളും ചെയ്യും അല്ലെങ്കിൽ ഈ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഞങ്ങൾക്ക് അറിവില്ലാത്തതിനാലോ അല്ലെങ്കിൽ ഞങ്ങൾക്കറിയാത്തതിനാലോ ഞങ്ങൾക്ക് ശരിയായി പ്രവർത്തനം ചെയ്യാൻ കഴിഞ്ഞേക്കില്ല ഉദാഹരണത്തിന് നമുക്ക് ഉചിതമായി സ്വയം നിരീക്ഷിക്കാൻ കഴിയില്ല ആളുകൾക്ക് വിദ്യാർത്ഥികൾക്ക് ഇത് ചെയ്യുന്നതിന് കുറച്ച് തവണ പരിശീലനം ലഭിച്ചുകഴിഞ്ഞാൽ അത് രണ്ടാമത്തെ സ്വഭാവമായി മാറുന്നു ആരെങ്കിലും മെറ്റാകോഗ്നിഷനിൽ ദരിദ്രനാണെങ്കിൽ ആവശ്യമായ വൈദഗ്ദ്ധ്യം നേടുന്നതുവരെ അയാൾക്ക് ഈ അനുഭവം നിരവധി തവണ വിധേയമാക്കേണ്ടതുണ്ട് എന്തുകൊണ്ടാണ് മെറ്റാകോഗ്നിഷൻ പരിശോധിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഇന്നത്തെ സന്ദർഭത്തിൽ ഒരൊറ്റ അല്ലെങ്കിൽ മൾട്ടി ഡിസിപ്ലിനറി സന്ദർഭത്തിലുടനീളം കൂടുതൽ വിവരങ്ങളുമായി ഇടപഴകാനും പരിവർത്തനം ചെയ്യാനുമുള്ള കഴിവ് ഞങ്ങൾക്ക് ആവശ്യമാണ് നമ്മൾ അറിയേണ്ടതെല്ലാം ഔപചാരിക പാഠ്യപദ്ധതിയിലേക്ക് നയിക്കാനാവില്ല നിങ്ങൾ പ്രവർത്തിക്കുന്ന ദൌതൃത്തിനെ ആശ്രയിച്ച് ഇന്ന് ഇൻറർനെറ്റിൽ ലഭ്യമായ അല്ലെങ്കിൽ എളുപ്പത്തിൽ ആക്സസ് ചെയ്യാൻ കഴിയുന്ന പുതിയ വിവരങ്ങൾ തുടർച്ചയായി ആക്സസ് ചെയ്യാൻ നിങ്ങൾ താൽപ്പര്യപ്പെട്ടേക്കാം ഒരൊറ്റ വിജ്ഞാനശാഖയിലോ മൾട്ടിഡിസിപ്ലിനറി സന്ദർഭത്തിലോ ധാരാളം വിവരങ്ങളുമായി ഇടപഴകാൻ ഒരാൾക്ക് കഴിയണം കൂടാതെ വിവരങ്ങളിലേക്കുള്ള ആക്സസ് തുടർച്ചയായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ വിവരങ്ങൾ ആക്സസ് ചെയ്യുന്നതിനും തിരഞ്ഞെടുക്കുന്നതിനും സാരാംശം കൈക്കൊള്ളുന്നതിനുമുള്ള പ്രക്രിയ ഒരു സുപ്രധാന കടമയായി മാറും ചിലപ്പോൾ നിങ്ങൾ Google ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അനന്തമായ വിവരങ്ങൾ ലഭിക്കും എല്ലാം വായിക്കാനും അതിൽ നിന്ന് വിവരങ്ങളുടെ സാരാംശം കൈക്കൊള്ളുന്നതിനും നിങ്ങൾക്ക് സമയം പാഴാക്കാൻ കഴിയില്ല നിങ്ങൾക്കാവശ്യമായ കഴിവുകളിലൊന്ന് വിവരങ്ങളുടെ സാരാംശം കൈക്കൊള്ളുന്നതിനുള്ള മെറ്റാകോഗ്നിറ്റീവ് കഴിവാണ് ഈ ദിവസങ്ങളിൽ സ്ഥാപന പ്രബോധകർ വിദ്യാർത്ഥികളോട് കൂടുതൽ പഠനവിധേയമായ അന്തരീക്ഷത്തിൽ സ്വയംഭരണാധികാരികളായി സ്വതന്ത്ര പഠനം ഏറ്റെടുക്കാൻ ആവശ്യപ്പെടുന്നു ചോക്ക് ബോർഡോ പ്രൊജക്ടറോ ഉപയോഗിച്ച് ക്ലാസ് മുറിയിൽ എന്തും എല്ലാം പഠിപ്പിക്കാൻ കഴിയില്ല ചില കാര്യങ്ങൾ ഹ്രസ്വമായി സ്പർശിക്കുന്നു അല്ലെങ്കിൽ അവലോകനങ്ങൾ അവതരിപ്പിക്കുന്നു കൂടാതെ വിദ്യാർത്ഥികൾ വിശദാംശങ്ങൾ നൽകേണ്ടതുണ്ട് എല്ലാ വിശദാംശങ്ങളും ഇന്നത്തെ ക്ലാസ് മുറികളിൽ അവതരിപ്പിക്കാൻ സാധ്യതയില്ല ഒരാൾ സ്വാശ്രയിയാകണം ഒരു നല്ല സ്വയംഭരണ പഠിതാവ് ഒരു നല്ല മെറ്റാകോഗ്നിറ്റീവ് വ്യക്തിയാണ് ഈ മൂന്നും നേടുന്നതിന് കൂടുതൽ വിവരങ്ങളുമായി ഇടപഴകാനോ വിവരങ്ങളുടെ സാരാംശം കൈക്കൊള്ളുന്നതിനോ സ്വയംഭരണാധികാരിയാകാനോ ഉള്ള കഴിവ് അതാണ് മെറ്റാകോഗ്നിഷൻ മെറ്റാകോഗ്നിഷൻ ലേർണിംഗ് വളർത്തുക എന്നതാണ് ഏറ്റവും നല്ല രീതി ആരാണ് ഒരു മെറ്റാകോഗ്നിറ്റീവ് വ്യക്തി ഒരു മെറ്റാകോഗ്നിറ്റീവ് വ്യക്തി എന്നത് അയാളുടെ അല്ലെങ്കിൽ അവളുടെ ധാരണ നിരീക്ഷിക്കുകയും മനസ്സിലാക്കൽ നിയന്ത്രിക്കുന്നതിന് തന്ത്രങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യുന്ന ഒരാളാണ് ഒന്ന് നിരീക്ഷണമാണ് മറ്റൊന്ന് ധാരണകളെ നിയന്ത്രിക്കുന്നതിന് തന്ത്രങ്ങൾ ഉപയോഗിക്കുന്നു മെറ്റാകോഗ്നിറ്റീവ് അല്ലാത്ത ഒരു വ്യക്തി ഉണ്ടെന്നും ഇതിനർത്ഥം എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യങ്ങളിലൊന്ന് സ്വതന്ത്ര പഠനത്തെ വളർത്തിയെടുക്കുക എന്നതാണ് ഇത് പ്രോഗ്രാം ഫലം 12 പ്രസ്താവിക്കുന്ന ആജീവനാന്ത പഠനമാണ് നിങ്ങളുടെ എഞ്ചിനീയറിംഗ് പ്രോഗ്രാമിലൂടെ പിഒ 12 നേടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ പഠിതാക്കളെ മെറ്റാകോഗ്നിറ്റീവ് വ്യക്തികളായി തയ്യാറാക്കേണ്ടത് ആവശ്യമാണ് എന്റെ ഒരു വിദ്യാർത്ഥി ആജീവനാന്ത പഠിതാവാണെന്ന് നിങ്ങൾക്ക് പ്രചരിപ്പിക്കാനോ സ്ഥാപിക്കാനോ കഴിയില്ല പ്രധാന റൂട്ട് അവനെ ഒരു മെറ്റാകോഗ്നിറ്റീവ് വ്യക്തിയാക്കുക എന്നതാണ് അതിനാൽ പഠിതാക്കളുടെ മെറ്റാകോഗ്നിഷൻ എങ്ങനെ മെച്ചപ്പെടുത്താമെന്ന് അധ്യാപകർ മനസിലാക്കേണ്ടതുണ്ട് മെറ്റാകോഗ്നിറ്റീവ് ടീച്ചിംഗ് മെറ്റാകോഗ്നിറ്റീവായി പഠിപ്പിക്കുക എന്നതിൽ മെറ്റാകോഗ്നിഷനുമായി പഠിപ്പിക്കുക മെറ്റാകോഗ്നിഷനു വേണ്ടി പഠിപ്പിക്കുക എന്നതും ഉൾപ്പെടുന്നു ആദ്യത്തേത് അധ്യാപകനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു രണ്ടാമത്തേത് പ്രബോധനവുമായി ബന്ധപ്പെട്ടതാണ് മെറ്റാകോഗ്നിഷനോടു കൂടി പഠിപ്പിക്കുക എന്നതിനർത്ഥം അധ്യാപകർ സ്വന്തം അധ്യാപനത്തെക്കുറിച്ച് ചിന്തിക്കുന്നു എന്നാണ് മെറ്റാകോഗ്നിഷനോടുകൂടിയ അധ്യാപനത്തിൽ പ്രബോധന ലക്ഷ്യങ്ങൾ പ്രതിഫലിപ്പിക്കുന്നത് ഉൾപ്പെടുന്നു അതിനർത്ഥം പ്രബോധന ലക്ഷ്യങ്ങൾ വിവക്ഷകൾ എന്നിവയെക്കുറിച്ച് അധ്യാപകന് വളരെ വ്യക്തമായിരിക്കണം അത് കേവലം ആവർത്തനമല്ല പ്രബോധന ലക്ഷ്യത്തിന്റെ ആഴം അല്ലെങ്കിൽ അത് ഏത് തലത്തിലാണ് ചെയ്യേണ്ടത് അത് എത്ര പ്രധാനമാണ് മറ്റ് നിർദ്ദേശ ലക്ഷ്യങ്ങളുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നിങ്ങനെയുള്ളവ നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം കൂടാതെ വിദ്യാർത്ഥികളുടെ സവിശേഷതകളും ആവശ്യങ്ങളും പ്രതിഫലിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയണം ഞങ്ങൾ പറഞ്ഞതുപോലെ എല്ലാ സ്ഥാപനങ്ങളിലെയും വിദ്യാർത്ഥികൾ ഒരുപോലെയല്ല അതിനാൽ ഓരോ വിദ്യാർത്ഥി ഗ്രൂപ്പിനും അവരുടേതായ സവിശേഷതകളും ആവശ്യങ്ങളും ഉണ്ട് എല്ലാ കോഴ്സുകളുടെയും ഉള്ളടക്കനിലയും ക്രമവും ഒരു പോലെയല്ല നിങ്ങൾക്ക് ലഭ്യമായ മെറ്റീരിയലുകളും പാഠ്യപദ്ധതി നിർദ്ദേശവും മറ്റ് പ്രശ്നങ്ങളും വിലയിരുത്തലുമായി ബന്ധപ്പെട്ട ഉപയോഗിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന അധ്യാപന തന്ത്രങ്ങൾ മെറ്റാകോഗ്നിഷൻ ഉപയോഗിച്ച് പഠിപ്പിക്കുന്നതിന് ഈ പ്രശ്നങ്ങളെല്ലാം പ്രതിഫലിപ്പിക്കേണ്ടതുണ്ട് ഇത് ഒരു തുടർച്ചയായ പ്രക്രിയയാണെന്ന് വീണ്ടും ശ്രദ്ധിക്കുക പ്രബോധന ഫലപ്രാപ്തി വർദ്ധിപ്പിക്കുന്നതിന് പാഠങ്ങൾക്ക് മുമ്പും സമയത്തും ശേഷവും അത്തരം ചിന്തകൾ സംഭവിക്കുന്നു മെറ്റാകോഗ്നിഷനു വേണ്ടി പഠിപ്പിക്കുക മെറ്റാകോഗ്നിഷൻ ഇവ മുഖാന്തരം പ്രചരിപ്പിക്കാം കുറിപ്പ് ചില സർവകലാശാലകൾ അവരുടെ വെബ്സൈറ്റുകളിൽ അവർ പെഡഗോഗിക്കൽ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു നിലപാട് എടുത്തു ഏതെങ്കിലും പ്രത്യേക ബ്രാഞ്ചിലെ ഫാക്കൽറ്റിയുടെ തയ്യാറാക്കിവെച്ച റഫറൻസ് സൂക്ഷിക്കാൻ അവർ തയ്യാറാണ് ഞാൻ വാണ്ടർബിൽറ്റ് സർവകലാശാലയിൽ നിന്ന് ഉദ്ധരിക്കുകയാണ് അവരുടെ നിലവിലെ ചിന്തകൾ പരിശോധിക്കാൻ വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കുന്നു ഈ വിഷയത്തെക്കുറിച്ച് എനിക്ക് എന്റെ പഠനത്തെ നയിക്കാൻ കഴിയുന്ന എന്താണ് ഇതിനകം അറിയാവുന്നത് ആശയക്കുഴപ്പം തിരിച്ചറിയുന്നതിൽ വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകുന്നത് ചിലപ്പോൾ ഒരു പ്രസ്താവന വിദ്യാർത്ഥിയെ ആശയക്കുഴപ്പത്തിലാക്കിയേക്കാം എന്നാൽ ഇന്ന് ക്ലാസ്സിൽ പര്യവേക്ഷണം ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് എന്നെ ഏറ്റവും ആശയക്കുഴപ്പത്തിലാക്കിയത് എന്തെന്ന് വിദ്യാർത്ഥിക്ക് പറയാൻ കഴിയണം ക്ലാസ്സിൽ ഞാൻ ശ്രദ്ധിച്ച ചിലത് പക്ഷേ അത് ആശയക്കുഴപ്പത്തിലാക്കി ഏത് ഘട്ടത്തിലാണ് ആശയക്കുഴപ്പത്തിലാകാൻ തുടങ്ങിയത് അത് വിദ്യാർത്ഥിക്ക് തിരിച്ചറിയാൻ കഴിയും അല്ലെങ്കിൽ ആശയപരമായ മാറ്റം തിരിച്ചറിയാൻ വിദ്യാർത്ഥികളെ പ്രേരിപ്പിക്കുന്നത് ഉദാഹരണത്തിന് ഈ കോഴ്സിന് മുമ്പ് ഒരു സിസ്റ്റത്തിന്റെ സ്ഥിരത ഇന്നതാണെന്ന് ഞാൻ കരുതി ഇപ്പോൾ സ്ഥിരത ഇത്തരത്തിലുള്ളതാണെന്ന് ഞാൻ കരുതുന്നു ഒരു ആശയപരമായ മാറ്റം സംഭവിക്കുമ്പോൾ വിദ്യാർത്ഥിക്ക് നിർദ്ദേശത്തിന് മുമ്പായി എഴുതാൻ കഴിയണം ഇതാണ് അവന്റെ അഭിപ്രായം അല്ലെങ്കിൽ ഇതാണ് അവന്റെ ധാരണ എന്നാൽ ഇത് പഠിച്ചതിനുശേഷം ധാരണ എങ്ങനെ മാറി അദ്ദേഹം വാചികമായോ ചിലപ്പോൾ ഒരു കടലാസിൽ എഴുതുകയോ ചെയ്യണം കൂടാതെ കുറച്ച് തവണ ചെയ്താൽ അത് അദ്ദേഹത്തിന്റെ ചിന്താരീതിയിൽ വലിയ വ്യത്യാസമുണ്ടാക്കും കാലക്രമേണ നിങ്ങളുടെ ചിന്ത എങ്ങനെ മാറുന്നുവെന്നതിന്റെ ട്രാക്ക് നിങ്ങൾ സൂക്ഷിക്കുന്നു ബോധപൂർവമായ രീതിയിൽ മാറുന്നതിനെക്കുറിച്ചുള്ള ഈ അവബോധം നിങ്ങളെ ഒരു മെറ്റാകോഗ്നിറ്റീവ് വ്യക്തിയാക്കുന്നു കൂടാതെ ഉപകരണങ്ങളിലൊന്ന് പ്രതിഫലന ജേർണലുകളാണ് ഇത് വിദ്യാർത്ഥികൾ അവരുടെ സ്വന്തം ചിന്തകൾ നിരീക്ഷിക്കുന്നതിന് ഒരു ഫോറം നൽകുന്നു നിങ്ങളുടെ വിദ്യാർത്ഥികളോട് സ്വന്തം ജേർണൽ എഴുതാൻ നിങ്ങൾ ആവശ്യപ്പെടുന്നു തന്റെ പരീക്ഷാ തയ്യാറെടുപ്പിനെക്കുറിച്ച് തയ്യാറെടുപ്പ് നന്നായി പ്രവർത്തിച്ചു അടുത്ത തവണ ഇത് ചെയ്യാൻ ഞാൻ ഓർത്തിരിക്കേണ്ടവ ഞാൻ ശരിയായി ചെയ്തുവെന്ന് നമുക്ക് പറയാം അടുത്ത തവണ അത് ഉപയോഗിക്കാൻ കഴിയുമെന്ന് ഉറപ്പാക്കാൻ എനിക്ക് ഇത് കുറിച്ചുവയ്ക്കാൻ കഴിയുമോ എന്തെങ്കിലും അത്ര നന്നായി പ്രവർത്തിച്ചില്ലെങ്കിൽ ആ പ്രത്യേക രീതി ചെയ്യുന്നതിനോ ഉപയോഗിക്കുന്നതിനോ ഞാൻ വീണ്ടും സമയം പാഴാക്കരുത് ഒരു പ്രതിഫലന ജേർണൽ നിലനിർത്താൻ അധ്യാപകന് ഒരു വിദ്യാർത്ഥിയെ പ്രോത്സാഹിപ്പിക്കാൻ കഴിയും അതിൽ വിദ്യാർത്ഥി അവൻ അവൾ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് പ്രതിഫലിപ്പിക്കുന്നു ആരെങ്കിലും വിമർശിക്കുന്നതി വേണ്ടിയല്ള അതിനേക്കാൾ അത് വിദ്യാർത്ഥിയുടെ കണ്ണുകൾക്ക് മാത്രമാണ് വിദ്യാർത്ഥികൾ ചിന്തിക്കുന്ന ഉള്ളടക്കവും പ്രവർത്തനങ്ങളും മെറ്റാകോഗ്നിഷനിലെ നിർദ്ദേശത്തിൽ ഉൾപ്പെടുത്തണം നിർദ്ദിഷ്ട പഠന സന്ദർഭം അല്ലെങ്കിൽ നിർദ്ദിഷ്ട വിഷയം കോഴ്സ് അല്ലെങ്കിൽ വിജ്ഞാനശാഖ എന്നിവ പ്രതിഫലിപ്പിക്കുന്നതിനായി ഇത് അനുയോജ്യമാകുമ്പോൾ ഇത് ഏറ്റവും ഫലപ്രദമാണ് അതിന്റെ അർത്ഥമെന്താണ് നിർദ്ദേശവും മെറ്റാകോഗ്നിഷനും പൊതുവായിരിക്കരുത് അത് ഒരു നിർദ്ദിഷ്ട കോഴ്സിന്റെയോ ഒരു പ്രത്യേക കോഴ്സിന്റെയോ പശ്ചാത്തലത്തിലാണ് ചെയ്യേണ്ടത് ഒരു പഠന സന്ദർഭത്തെ അതിന്റെ പ്രസക്തമായ പ്രക്രിയകളുമായി സ്പഷ്ടമായി ബന്ധിപ്പിക്കുന്നതിലൂടെ പഠനം എല്ലായിടത്തും എല്ലാ സമയത്തും ഒരു പോലെയാണെന്ന് കരുതുന്നതിനു പകരം പുതിയ സന്ദർഭങ്ങളിലേക്ക് തന്ത്രങ്ങൾ സ്വീകരിക്കാൻ പഠിതാക്കൾക്ക് കഴിയും ഉദാഹരണത്തിന് വിജ്ഞാനശാഖാപാഠങ്ങൾ വിജ്ഞാനശാഖക്ക് അനുയോജ്യമായ രീതിയിൽ വായിക്കാനുള്ള വിദ്യാർത്ഥികളുടെ കഴിവ് മെറ്റാകോഗ്നിറ്റീവ് പരിശീലനത്തിൽ നിന്നും പ്രയോജനം ചെയ്യും നിർദ്ദേശം നടക്കേണ്ട രീതി ഒരു നിർദ്ദിഷ്ട കോഴ്സുമായി ബന്ധപ്പെട്ടതാണ് പഠനം പൊതുവായതായി മാറുന്നുവെന്ന് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനർത്ഥം എനിക്ക് ഒരു മെറ്റാകോഗ്നിറ്റീവ് വ്യക്തിയാകാൻ കഴിയുമെങ്കിൽ മറ്റ് സന്ദർഭങ്ങളിലും അത് പ്രയോഗിക്കാൻ എനിക്ക് കഴിയും നമുക്ക് ആമുഖ പ്രോഗ്രാമിംഗ് കോഴ്സിൻ്റെ കേസ് എടുക്കാം അന്താരാഷ്ട്രതലത്തിൽ വളരെ ഉയർന്ന പരാജയവും കൊഴിഞ്ഞുപോകൽ നിരക്കും ഉള്ളതായി ഇത് അറിയപ്പെടുന്നു ഇന്ത്യയിൽ മിക്ക എഞ്ചിനീയറിംഗ് സ്ഥാപനങ്ങളും ഈ കോഴ്സിൽ ഉയർന്ന വിജയശതമാനം നേടുന്നു മാത്രമല്ല കോഴ്സ് ഉപേക്ഷിക്കുന്നത് ഒരു ഓപ്ഷനല്ല കാരണം ഇത് നിർബന്ധമാണ് സ്ഥാപനങ്ങൾ ഇത് എങ്ങനെ നേടി പ്രോഗ്രാമിംഗ് ലൂടെയല്ല ഒരു നിശ്ചിത പ്രോഗ്രാമുകൾ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നതിലൂടെ ഒരു നിശ്ചിത കൂട്ടം പ്രോഗ്രാമുകൾ പഠിക്കുന്നതിലൂടെ കോഴ്സിനെ പരിവർത്തനം ചെയ്യുന്നതിലൂടെ ഉയർന്ന പാസ് ശതമാനം നേടുന്നതിന് സിസ്റ്റം എങ്ങനെയെങ്കിലും പൊരുത്തപ്പെട്ടു ലാബിൽ ഈ പ്രോഗ്രാമുകൾ പുനർനിർമ്മിക്കാനുള്ള വിദ്യാർത്ഥിയുടെ കഴിവിനെ അടിസ്ഥാനമാക്കിയാണ് വിലയിരുത്തൽ രീതികൾ അതിനർത്ഥം ഒരു നിശ്ചിത കൂട്ടം പ്രോഗ്രാമുകൾ 20 അല്ലെങ്കിൽ 25 ഉണ്ട് ടീച്ചർ ഈ പ്രോഗ്രാമുകൾ അവതരിപ്പിക്കുന്നു ഒരു കോഡ് മാത്രമേ ബോർഡിൽ അവതരിപ്പിച്ചിട്ടുള്ളൂ ആ കോഡ് ഓർമ്മിക്കാനും പുനർനിർമ്മിക്കാനും ലബോറട്ടറിയിൽ പ്രവർത്തിപ്പിക്കാനും വിദ്യാർത്ഥിക്ക് കഴിയണം സാധാരണയായി നിങ്ങൾക്ക് കൂടുതൽ കാര്യക്ഷമമായ കോഡ് എഴുതാൻ കഴിയുമെങ്കിലും നിങ്ങൾ കോഡ് മാറ്റേണ്ടതില്ല പുതിയ പ്രശ്നങ്ങൾക്ക് കോഡ് ചെയ്യാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ ഒരു നിശ്ചിത പ്രോഗ്രാം വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നതിന് എങ്ങനെയെങ്കിലും സിസ്റ്റം ക്രമീകരിക്കുന്നു പ്രോഗ്രാമുകൾ എഴുതുന്നതിന് ആവശ്യമായ വിജ്ഞാനത്തിന്റെ മെറ്റാകോഗ്നിറ്റീവ് അറിവും നിയന്ത്രണവും നിരീക്ഷണവും നിയന്ത്രണവും മെറ്റാകോഗ്നിറ്റീവ് അവബോധവും വിദ്യാർത്ഥികൾക്ക് ഇല്ലെന്ന് ഒരു സർവേ കണ്ടെത്തി നല്ല ഗ്രേഡുകൾ നല്ല പ്രോഗ്രാമിംഗ് കഴിവുകളെ അർത്ഥമാക്കുന്നില്ലെന്ന് മറ്റൊരു സർവേ കണ്ടെത്തി ആർക്കെങ്കിലും എ അല്ലെങ്കിൽ എസ് ലഭിച്ചിട്ടുണ്ടെങ്കിൽപ്പോലും അവൻ അവൾ പ്രോഗ്രാമിംഗിന് പ്രാപ്തനാണെന്ന് ഇതിനർത്ഥമില്ല ഈ പ്രത്യേക കോഴ്സുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങളുണ്ട് പരസ്പരബന്ധിതമായ മൂന്ന് തരം പ്രോഗ്രാമിംഗ് സ്വായത്തമാക്കുകയും ഫലപ്രദമായി ഉപയോഗിക്കുകയും ചെയ്യുന്നതാണ് പഠന പ്രോഗ്രാമിംഗ് അറിവുകൾ ഇതെല്ലാം എന്താണ് ഒന്ന് സിന്റാക്റ്റിക് പ്രോഗ്രാമിംഗ് ഭാഷയെക്കുറിച്ചുള്ള നിർദ്ദിഷ്ട വസ്തുതകളും അതിന്റെ ഉപയോഗത്തിനുള്ള നിയമങ്ങളും ക്ലാസ്സിൽ പൊതുവായി അവതരിപ്പിക്കുന്നത് ഇതാണ് കൺസെപ്ച്വൽ കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് നിർമ്മിതികളും തത്ത്വങ്ങളും ഞാൻ എങ്ങനെ ഒരു അൽഗോരിതം ബേസ് സൃഷ്ടിക്കുകയും അതിൽ നിന്ന് പ്രശ്നം വ്യാഖ്യാനിക്കുകയും ചെയ്യും തന്ത്രം പ്രോഗ്രാമിംഗ് നിർദ്ദിഷ്ട പരിഹരിക്കാൻ കഴിവുള്ള പൊതു പ്രോഗ്രാം പതിപ്പുകൾ മിക്ക ആമുഖ പ്രോഗ്രാമിംഗ് കോഴ്സുകളും സിന്റാക്റ്റിക് പരിജ്ഞാനത്തിന്റെ വികാസത്തെ പ്രോത്സാഹിപ്പിക്കുന്നതായി തോന്നുന്നു മാത്രമല്ല ആശയപരമായ അറിവിന്റെ അല്ലെങ്കിൽ തന്ത്രപരമായ അറിവിന്റെ വികസനത്തിന് വേണ്ടത്ര ഊന്നൽ നൽകുന്നില്ല അത് മാർഗനിർദേശമില്ലാത്ത കണ്ടെത്തലിന് അവശേഷിക്കുന്നു ക്ലാസ് മുറിയിൽ ഇത് വ്യക്തമായി കൈകാര്യം ചെയ്യാത്തപ്പോൾ വിദ്യാർത്ഥികൾ സ്വയം കണ്ടെത്തേണ്ടിവരും ആരും ആ പ്രക്രിയയെ നയിക്കുന്നില്ല ട്രയലിലൂടെയും പിശകുകളിലൂടെയും വിദ്യാർത്ഥികളെ മുന്നോട്ട് പോകാൻ അനുവദിക്കുന്നതാണ് പ്രോഗ്രാമിംഗിന്റെ മെറ്റാകോഗ്നിറ്റീവ് നിർദ്ദേശം പല സ്ഥാപനങ്ങളിലെയും ആത്യന്തിക പ്രബോധന ലക്ഷ്യം പ്രോഗ്രാമുകൾ പ്രാവർത്തികമാക്കുന്നതായി കാണുന്നു പ്രോഗ്രാമിംഗിനെക്കുറിച്ചുള്ള ദുർബലമായ അറിവ് വിദ്യാർത്ഥികൾ വികസിപ്പിച്ചെടുക്കുന്നു അതിനർത്ഥം നിങ്ങൾക്ക് ഒരു കൂട്ടം പ്രോഗ്രാമുകൾ അറിയാം ഇത് ഇതുപോലെ വിവർത്തനം ചെയ്യുന്നു 20 സ്റ്റാൻഡേർഡ് പ്രോഗ്രാമുകളിൽ ഒരു ദീർഘചതുരത്തിന്റെ വിസ്തീർണ്ണം കണ്ടെത്താൻ ഒരു പ്രോഗ്രാം ഉണ്ട് ഒരു ത്രികോണത്തിന്റെ വിസ്തീർണ്ണം കണ്ടെത്താൻ നിങ്ങൾ വിദ്യാർത്ഥികളോട് ആവശ്യപ്പെടുകയാണെങ്കിൽ ഏകദേശം 90 ശതമാനം വിദ്യാർത്ഥികളും പരാജയപ്പെടുന്നതായി തോന്നുന്നു അതിനർത്ഥം അവർക്ക് നിശ്ചേതനമായ അറിവുണ്ട് പക്ഷേ അവർക്ക് പുതിയ സന്ദർഭം ഉചിതമായി മനസിലാക്കാനും കോഡിൽ അല്പം മാറ്റം വരുത്താനും കഴിയില്ല അവർ തങ്ങളുടെ അറിവ് ഉചിതമല്ലാതെ ഉപയോഗിക്കുന്നു അവർക്ക് കോഡ് ഉചിതമായി മാറ്റാൻ കഴിയില്ല കാരണം അവരുടെ അറിവ് അത് നേടിയ പ്രാരംഭ സന്ദർഭത്തിലേക്ക് യോജിപ്പിക്കുകയും ചെയ്യുന്നു വിദ്യാർത്ഥികൾക്ക് ഒരു സന്ദർഭം മാത്രമേ പരിചയമുള്ളൂ മാത്രമല്ല മാറുന്ന സന്ദർഭവുമായി പൊരുത്തപ്പെടാൻ അവർക്ക് കഴിയില്ല എന്തുചെയ്യാൻ കഴിയും വിവിധ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികളുടെ നിരവധി ഗ്രൂപ്പുകളുമായി പ്രവർത്തിച്ച മെറ്റാകോഗ്നിറ്റീവ് ഫോർമാറ്റീവ് അസസ്മെന്റ് സ്ഥാപിച്ചത് വിദ്യാർത്ഥികളെ പാസാകാനും മികച്ച ഗ്രേഡുകൾ നേടാനും പര്യാപ്തമായ സാമൂഹിക പശ്ചാത്തലത്തിൽ പോലും മികച്ച പ്രോഗ്രാമിംഗ് പഠനത്തിനായി ആസൂത്രണം ചെയ്യാനും സമയം ചെലവഴിക്കാനും സഹായിക്കുന്നു നിങ്ങൾക്ക് കാണാനാകുന്നതുപോലെ ഇത് ഒരു പ്രധാന തടസ്സമാണ് അതിനർത്ഥം ഞാൻ പ്രോഗ്രാമുകൾ മാത്രം പഠിച്ചാൽ എനിക്ക് നല്ല ഗ്രേഡുകൾ നേടാൻ കഴിയും ഏതെങ്കിലും മെറ്റാകോഗ്നിറ്റീവ് ഫോർമാറ്റീവ് അസസ്മെന്റിൽ പങ്കെടുക്കുന്ന ഭൂരിഭാഗം വിദ്യാർത്ഥികൾക്കും കൂടുതൽ പ്രചോദനം ഇല്ല ഒരു ചെറിയ എണ്ണം വിദ്യാർത്ഥികൾ പ്രോഗ്രാമിംഗ് പഠിക്കുന്നതിൽ ഗൌരവമുള്ളവരായിരുന്നു അവർ ഇത്തരത്തിലുള്ള അഭൃാസത്തിൽ പങ്കെടുത്തു എന്നാൽ ഇത് പതിവ് കാര്യമായി ചെയ്യണം പൊതുവേ മെറ്റാകോഗ്നിറ്റീവ് നിർദ്ദേശത്തെക്കുറിച്ച് എന്തുചെയ്യാനാകും ആദ്യത്തേത് മെറ്റാകോഗ്നിറ്റീവ് ഇൻസ്ട്രക്ഷൻ സന്ദർഭവും ഉള്ളടക്ക നിർദ്ദിഷ്ടവുമായിരിക്കണം എന്നാൽ മെറ്റാകോഗ്നിറ്റീവ് പഠനം പൊതുവായ സ്വഭാവമാണ് അതിനാൽ നമ്മൾ എന്തുചെയ്യണം എഞ്ചിനീയറിംഗ് പ്രോഗ്രാമിന്റെ ആദ്യ രണ്ട് വർഷത്തെ കുറച്ച് കോഴ്സുകൾ മനഃപൂർവമായ മെറ്റാകോഗ്നിറ്റീവ് നിർദ്ദേശത്തിനായി ലക്ഷ്യമിടണം ഈ കോഴ്സുകൾ ഞങ്ങൾ എങ്ങനെ തിരഞ്ഞെടുക്കും നിങ്ങൾക്ക് ഒരു മാത്തമാറ്റിക്സ് കോഴ്സ് പ്രോഗ്രാമിംഗ് കോഴ്സ് ഡിസ്ക്രിപ്റ്റീവ് കോഴ്സ് എഞ്ചിനീയറിംഗ് സയൻസ് കോഴ്സ് അല്ലെങ്കിൽ ഒരു ഇംഗ്ലീഷ് കോഴ്സ് എടുക്കാം കുറച്ച് കോഴ്സുകൾ ടാർഗെറ്റുചെയ്യാം അതായത് ആ കോഴ്സുകളിലെ ഇൻസ്ട്രക്ടർമാർക്ക് മനഃപൂർവ്വം മെറ്റാകോഗ്നിറ്റീവ് നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തുന്നതിന് പരിശീലനം നൽകണം നിങ്ങളുടെ കോഴ്സ് ലെ മെറ്റാകോഗ്നിറ്റീവ് പ്രബോധനത്തിന്റെ ചില മാതൃകകൾ നിങ്ങൾ നേരത്തെ മെറ്റാകോഗ്നിഷനുമായി ബന്ധപ്പെട്ട ടെർമിനോളജിയിൽ അശ്രദ്ധരായിരുന്നപ്പോഴായാലും എഴുതാൻ അഭ്യർത്ഥിക്കുന്നു ഈ പ്രത്യേക യൂണിറ്റിലൂടെ നിങ്ങൾക്ക് പദാവലി പരിചയപ്പെടണം നിങ്ങളുടെ കോഴ്സിൽ മെറ്റാകോഗ്നിറ്റീവ് നിർദ്ദേശത്തിന്റെ കുറച്ച് ഉദാഹരണങ്ങളുണ്ടോയെന്ന് നിങ്ങൾക്ക് തിരിഞ്ഞുനോക്കാനാകും അങ്ങനെയാണെങ്കിൽ ആ കുറച്ച് സംഭവങ്ങൾ ബുള്ളറ്റ് പോയിന്റുകളായോ ഒരു ചെറിയ ഖണ്ഡികയായോ എഴുതുക ഈ അഭൃാസങ്ങളുടെ ഫലങ്ങൾ ഈ വിലാസത്തിൽ പങ്കിട്ടതിന് ഞങ്ങൾ നിങ്ങൾക്ക് നന്ദി പറയുന്നു